ഞാൻ നിങ്ങളോട് വീണ്ടും ഓർക്കാൻ പറയുന്നൊരു ഷോർട്ട് ഹാൻഡ് നോറ്റെഷനുണ്ട് ഇത് നിങ്ങൾ ഈ FEM ശ്രദ്ധിച്ചെങ്കിൽ ഈ ഒരൊറ്റ ടേമിനെ വീണ്ടും വീണ്ടും എഴുതാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇതിനെ Φ എന്ന് മുൻപത്തെപോലെ തന്നെ വിളിക്കുന്നു ഓക്കേ അപ്പൊ ഈ കാണുന്ന Φ വെറും ഇന്റഗ്രന്റ് ആണ് ഓക്കേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെയുള്ളൊരു വസ്തു കൊണ്ടുവന്നു ബൌണ്ടറിയിലുള്ള ഏതെങ്കിലുമൊരു ത്രികോണമെടുക്കാം അപ്പോൾ ഇതാണ് എന്റെ ഔട്വെർഡ് നോർമൽ പിന്നെ ലാളിത്യത്തിനായി ഈ എഡ്ജുകളെ ഞാൻ 123 എന്ന് വിളിക്കാൻ പോകുന്നു അപ്പോൾ FEM ൽ ഞാനെന്താണ് ചെയ്തത് സാധാരണ FEMൽ ടെസ്റ്റിംഗ് ഫങ്ക്ഷനുകളുടെ സാധ്യമായ എല്ലാ വ്യത്യസ്ത മൂല്യങ്ങളിലൂടെയും ഞാൻ കടന്നു പോയി ഓരോ എഡ്ജിലേക്കും ഈ ടെസ്റ്റിംഗ് ഫങ്ക്ഷൻ കൊണ്ടുപോയി എന്നിട്ട് ഞാൻ എന്റെ ഇക്വേഷനുകളുടെ സിസ്റ്റം എഴുതിവെച്ചു പിന്നെ nm എഡ്ജുകൾ ഉള്ളതിനാൽ nm ടെസ്റ്റിംഗ് ഫങ്ക്ഷനുകളുണ്ട് അതെല്ലാം നമുക്ക് പരിചിതമാണ് പക്ഷെ നമ്മൾ ചെയ്ത വ്യത്യാസപ്പെടുത്തൽ കാരണം എന്താണ് ആ സമവാക്യത്തിന് സംഭവിക്കുക എന്നത് നമുക്ക് നോക്കാം അത് സംഭവിക്കുക എന്റെ Tm ബൌണ്ടറിയിൽ ആവുമ്പോഴാണ് ഓക്കേ ഒരു ബൌണ്ടറി എഡ്ജ് ആണ് ഈ വലത് വശത്തെ പ്രചോദിപ്പിക്കാൻ പോകുന്നത് അല്ലാത്തപക്ഷം ബൌണ്ടറിയിലെ Tm 0 ആണ് Tm അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ m അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ ടേo 0 ആണ് വേരിയബിളുകളുടെ മോശം തിരഞ്ഞെടുപ്പാണ് m ഇവിടെ വേരിയബിൾ ആയിരിക്കുമെന്ന് കരുതുക പക്ഷേ നമ്മൾ ഇത് അതിർത്തി അരികുകളുടെ എണ്ണത്തിന് തുല്യമാക്കി പക്ഷേ നിങ്ങൾക്ക് ഇത് വ്യക്തമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം i യിലേക്ക് ആക്കാം അതിനാൽ നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്നതുപോലെ ആവിഷ്കരിച്ച കാന്തികക്ഷേത്രം എന്താണ് ഇത് Hi13uiTi എന്ന് എഴുതാൻ പോകുന്നു അതിനാൽ എന്റെ FEM സമവാക്യങ്ങൾ എനിക്ക് നൽകാൻ പോകുന്നത് ഞാൻ ഒരു ടെസ്റ്റിംഗ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കാൻ പോകുകയാണ് അതിനാൽ ഞാൻ Tm1 ടെസ്റ്റിംഗ് ഫംഗ്ഷനായി തിരഞ്ഞെടുക്കുകയും FEM ൽ നിന്ന് എന്റെ മാട്രിക്സ് സമവാക്യത്തിന്റെ ഒരു വരി സൃഷ്ടിക്കുകയും ചെയ്യും ഒരു വരി മാത്രം അതിനാൽ എന്ത് സംഭവിക്കും അതിനാൽ ഈ ത്രികോണത്തിന്റെ ഇന്റഗ്രൽ T1Hdru1T1T1dru2T1T2dru3T1T3dr ആയിരിക്കും നിങ്ങൾ ഈ കക്ഷിയെ ശ്രദ്ധിച്ചു അത് H ന് ലീനിയർ ആണ് ഞാൻ H നെ H1H2 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചാൽ അത് ആ രണ്ട് ടേമുകളുടെ ആകെത്തുകയുടെ ക്യാപിറ്റൽ ഫി ആയി മാറും അതിനാൽ ഇവിടെയാണ് എനിക്ക് ലഭിക്കുന്നത് എന്റെ ഈ വരിയിൽ u1u2u3 മാത്രമേ ഉൾപ്പെടൂ കൂടാതെ മുഴുവൻ ഫോർമുലേഷന്റെ മറ്റ് അരികുകളൊന്നും ഉൾപ്പെടില്ല അതിനാലാണ് ഇത് വേഗമേറിയതും ഇപ്പോൾ ഇത് എന്തിന് തുല്യമായിരിക്കും വിദ്യാർത്ഥി അതിർത്തി ഇവിടെ നമ്മുടെ ശ്രദ്ധാപൂർവമായ കാര്യമനുസരിച്ച് ഈ ബൌണ്ടറി ടേo ശരിയാകും അതിനാൽ ഇത് j0lEzj0la1 ആയിരിക്കും അവിടെ Ezi1maipi ഇത് ഒരു ബൌണ്ടറിയാണെന്ന് ഓർക്കുക ബൌണ്ടറിയിൽ കൂടി ഒരു എഡ്ജ് പിന്നെ മറ്റൊരു എഡ്ജുണ്ടാകാൻ പോകുന്നു തുടർന്ന് ഇതുപോലെ മറ്റൊരു എഡ്ജുണ്ടാകും അത്തരം എത്ര എഡ്ജുകൾ ഉണ്ട് വിദ്യാർത്ഥി m m എഡ്ജുകൾ പൾസ് ബേസ് ഫംഗ്ഷൻ ഓരോ അരികിലും ഒന്നെന്ന കണക്കിൽ അതിനാൽ ഇവിടെ നിന്ന് നമ്പറിംഗ് ആരംഭിക്കുകയാണെങ്കിൽ ഇത് അടിസ്ഥാനപരമായി a1 ആയിരിക്കും ഇതും എഡ്ജ് 1 ആണെങ്കിൽ അതിനാൽ നമുക്ക് ഇതിനെ എഡ്ജ് 1 എന്ന് വിളിക്കാം അതിനാൽ എങ്ങനെ നിങ്ങൾ നമ്പർ ഇടുന്നു എന്ന കാര്യത്തിൽ ബുക്ക് കീപ്പിങ്ങിൽ കുറച്ച് കൂടി ശ്രദ്ധ വേണ്ടതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള സമവാക്യ സംവിധാനമാണ് ലഭിച്ചത് അതിനാൽ ഞാൻ FEM സിസ്റ്റം സമവാക്യങ്ങൾ ചെയ്താൽ എനിക്ക് എത്ര സമവാക്യങ്ങൾ ഉണ്ടാകും എനിക്ക് ഓരോ അതിരുകളിലും പരീക്ഷിക്കാൻ കഴിയും ഞാൻ അർത്ഥമാക്കുന്നത് ഓരോ അരികുകളും അതിനാൽ nm സമവാക്യങ്ങൾ എന്നാൽ ആ സമവാക്യങ്ങളിൽ m ശരിയാണ് അതിനാൽ എനിക്ക് ആകെ nm സമവാക്യങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥി പക്ഷേ നിങ്ങൾക്ക് ബൌണ്ടറി കണ്ടീഷൻസ് പ്രയോഗിക്കാൻ കഴിയില്ല അതെ നമ്മൾ ബൌണ്ടറി കണ്ടിഷൻസിലേക്കാണ് വരുന്നത് അവയിൽ n ഇന്റീരിയർ ആണ് അതിനാൽ അവ ചെയ്യുന്നില്ല ai's കൾ ഉൾപ്പെടുന്നു വ്യക്തമായും അവയിൽ m ൽ ai ഉൾപ്പെടുന്നു എന്നാൽ ഈ പ്രശ്നത്തിലെ നമ്മുടെ വേരിയബിളുകളുടെ എണ്ണം ഇപ്പോൾ എത്രയായി ഞാൻ ഇവിടെ ഈ സമവാക്യം 5 ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ അജ്ഞാതമായതിന്റെ എണ്ണം ഇപ്പോൾ ആയിത്തീർന്നിരിക്കുന്നു n2m അതിനാൽ അത് nmm ആകും അപ്പോൾ ഇവ എന്തൊക്കെയാണ് ഇവ H ടാൻജെൻഷ്യൽ ആണ് ഇത് എന്താണ് Ez അതിനാൽ ഞാൻ എന്റെ സമവാക്യങ്ങളുടെ സിസ്റ്റം കുറച്ചുകൂടി വലുതാക്കുന്നു കൂടാതെ FEM സമവാക്യങ്ങൾ ഈ Ez കൂട്ടാളികളെ ഉൾപ്പെടുത്താൻ പോകുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അർത്ഥമാക്കുന്നത് ഇപ്പോൾ മതിയായ സമവാക്യങ്ങൾ ഇല്ല nm സമവാക്യങ്ങൾ മാത്രമേ എനിക്ക് ഉള്ളൂ അതേസമയം a എണ്ണം അജ്ഞാതമായത് n2m ആണ് എന്നാൽ ഞാൻ ഇവിടെ സമവാക്യം 5 ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കറിയാം എനിക്ക് മറ്റൊരു m സമവാക്യങ്ങൾ ലഭിക്കാൻ പോകുന്നു അപ്പോൾ BI സമവാക്യങ്ങൾ എങ്ങനെയായിരിക്കും BI സമവാക്യങ്ങൾ ബൌണ്ടറി ഇന്റഗ്രൽ സമവാക്യങ്ങളിൽ എന്ത് ഏത് എന്നിവ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഞാൻ സമവാക്യം 5 എടുക്കുമ്പോൾ അവിടെ Ez ഉണ്ട് അവിടെ ഉണ്ട് H ടാൻജെൻഷ്യൽ H ടാൻജെൻഷ്യൽ എന്നിവയുമായി ബന്ധപ്പെട്ടത് വിദ്യാർത്ഥി E z ഇല്ല H ടാൻജെൻഷ്യൽ u'sമായി ബന്ധപ്പെട്ടതാണ് വിദ്യാർത്ഥി H ടാൻ us പിന്നെ E z ആണ് വിദ്യാർത്ഥി a as ശരിയാണ് അതിനാൽ ഞാൻ ഇത് ഒരു മാട്രിക്സ് സമവാക്യത്തിൽ എഴുതിയാൽ എനിക്ക് എന്ത് ലഭിക്കും താഴെപ്പറയുന്ന ഫോമിൽ എന്തെങ്കിലും എനിക്ക് ലഭിക്കും qApquqBpqvqep യഥാർത്ഥത്തിൽ വിളിക്കുന്നതിനുപകരം എന്താണെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് അതിനെ v എന്ന് വിളിക്കാം അതിനാൽ ചെറിയ അക്ഷരവും aയും വലിയ അക്ഷരവും a യും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാകില്ല അതിനാൽ ഞാൻ വിളിക്കുന്ന വൈദ്യുത മണ്ഡലത്തിന്റെ പൾസ് അടിസ്ഥാനത്തിലുള്ള ഗുണകങ്ങൾ v എന്ന് ഞാൻ വിളിക്കുന്നു നമുക്ക് അത് ചെറിയ a എന്നതിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാണ് സമവാക്യം വലതുഭാഗം എന്തിന് തുല്യമായിരിക്കും ഈ കക്ഷിയുടെ ഇൻസിഡന്റ് ഫീൽഡിന് തുല്യമാകാൻ പോകുന്നു അതിനാൽ ഇത് മൊത്തത്തിൽ m സമവാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് വൈദ്യുത മണ്ഡലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇൻസിഡന്റ് വൈദ്യുത മണ്ഡലം ഇവിടെ നന്നായി പ്രത്യക്ഷപ്പെട്ടു അതിനാൽ ഇപ്പോൾ എനിക്ക് മതിയായ സമവാക്യങ്ങൾ ഉണ്ടോ ഞാൻ അങ്ങനെ യോജിപ്പിച്ചാൽ ഇത് 1 ഉം 2 ഉം കൂട്ടിച്ചേർക്കുക എനിക്ക് എത്ര അജ്ഞാതങ്ങളുണ്ട് nmm വിദ്യാർത്ഥി ഇല്ല അവിടെ ഉണ്ടാകും a അവിടെ ഉണ്ടാകും സമയം റഫർ ചെയ്യുക 1058 മൊത്തം പ്രശ്നത്തിൽ മൊത്തം പ്രശ്നത്തിന് ഒരു ഇന്റീരിയർ ഡിസ്ക്രിറ്റൈസേഷനും ബൌണ്ടറി ഡിസ്ക്രിറ്റിസേഷനും ഉണ്ട് ഇന്റീരിയർ ഡിസ്ക്രിറ്റൈസേഷൻ വിദ്യാർത്ഥി n അരികുകൾ ഉണ്ട് ആ അജ്ഞാതങ്ങൾ അജ്ഞാതമായി തുടരുന്നു അവ നിർണ്ണയിക്കപ്പെടുന്നില്ല അതിനാൽ അവയാണ് n ബൌണ്ടറിയിൽ എന്റെ Ez ഉണ്ട് കൂടാതെ H ടാൻജെൻഷ്യൽ രണ്ടും നിർണ്ണയിച്ചിട്ടില്ല അപ്പോൾ അവിടെ അജ്ഞാതമായ എത്ര എണ്ണമുണ്ട് n2m നിങ്ങൾക്ക് ഇപ്പോൾ എന്നോടൊപ്പം ആകെ എത്ര സമവാക്യങ്ങളുണ്ട് വിദ്യാർത്ഥി m പ്ലസ് FEM ൽ നിന്ന് mn ബൌണ്ടറി ഇന്റഗ്രലിൽ നിന്ന് n അതിനാൽ വളരെ സമർത്ഥമായ രീതിയിൽ ഇവ രണ്ടും ലയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു വിദ്യാർത്ഥി രണ്ടാമത്തെ കാര്യം ഒന്ന്